അതിനാൽ നമുക്കത് എന്താണെന്ന് നോക്കാം അതിനാൽ PML ലേക്ക് കടക്കാം അതിനാൽ PML ൽ കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് സംഖ്യ ശരിയായി നൽകുന്നതിന് നമ്മൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ ൻറെ പദങ്ങളിൽ എഴുതാൻ തുടങ്ങി അതിനാൽ ഞാൻ എഴുതിയത് ന് തുല്യമാണ് ഇവിടെ വൈദ്യുതിയുടെ ഒരു പദവുമില്ല കൂടാതെ നമുക്ക് ഇത് ആക്കാം കാരണം ശൂന്യതക്കും PML നും ഇടയിലുള്ള ഇന്റർഫേസിലെ എപ്സിലോൺ mu എന്നിവ ഒരു പോലെ ആയിരുന്നു എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു അതിനാൽ ഇപ്പോൾ ഞാൻ ഈ മാക്സ്വെല്ലിന്റെ സമവാക്യം എഴുതാൻ പോകുന്ന PML മേഖലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഈ പദങ്ങളിൽ ഒന്ന് എടുക്കാം ഉദാഹരണത്തിന് നമുക്ക് എന്ന പദം എടുക്കാം അതിനാൽ അത് എന്തിനു തുല്യമാകും ഞാൻ ഈ വശത്തേക്ക് നോക്കുമ്പോൾ അതെ ഇതാണ് സമവാക്യം ഇനി ഞാൻ ഈ പദം നോക്കുന്നു അതിനാൽ ഞാൻ അവിടെ എന്താണ് എഴുതേണ്ടത് തീർച്ചയായും മറ്റെന്തെങ്കിലും വിദ്യാർത്ഥികൾ 1 by s z കൃത്യമായി പറഞ്ഞാൽ ആണ് ഇടതുവശത്ത് ഉള്ളത് അതിനാൽ ഞാൻ മൂന്നാമത്തെ ഘടകം മാത്രമാണ് എടുക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ ഘടകം മാത്രമേ എടുക്കാനാകൂ പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് ലളിതമാക്കുന്നു അപ്പോൾ വലതുവശത്ത് എന്ത് സംഭവിക്കും വിദ്യാർത്ഥി E s z അതെ ശരിയാണ് ഇതുപോലെ മൂന്നിനും ഇടയിൽ ഒന്നിൽനിന്ന് ഒന്നിലേക്ക് ഉണ്ട് അതിനാൽ നിങ്ങൾക്കാവശ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം എഴുതാം ഓരോ ഘടകവും ഞാൻ നന്നായി മനസ്സിലാക്കണം ഇതാണ് PML നമ്മോട് പറയുന്നത് ഇതുമായി ബന്ധമില്ലാത്തതായുള്ളതെന്തെന്നാൽ ഇത് ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമം പോലെ തോന്നുന്നു അതിനാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാമ്യതയോ മറ്റോ ഉണ്ടോ അതിനാൽ ഇത് നമുക്ക് PML നാണ് എന്ന് എഴുതാംനഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തിനും നമുക്ക് എഴുതാം നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തിന് ഇതുവരെ PML മായി ഒരു ബന്ധവുമില്ല ബന്ധപ്പെട്ട് അതിനാൽ നഷ്ടം സംഭവിക്കുന്ന മാധ്യമം എന്താണ് പറയുന്നതെന്ന് എഴുതട്ടെ അതിനാൽ അത് പറയുന്നു ഇതിനെയാണ് ഞാൻ സമവാക്യ നമ്പർ 3 ആയി വീണ്ടും എഴുതുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് ശൂന്യമായ മുഖങ്ങൾ കാണുന്നു ഞാൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് വ്യക്തമാണോ അതിനാൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്ന മാധ്യമവുമായി ഒരു പടി പിന്നോട്ട് പോകാം അതിനാൽ മാക്സ്വെല്ലിന്റെ സമവാക്യം ഇതിൽ പ്രശ്നമൊന്നുമില്ലാതെ വീണ്ടും എഴുതി ഇവിടെ ഞാൻ ഇത് 1 2 3 എന്ന 3 വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മൂന്നാം ഘടകം നോക്കുന്നു അതിനാൽ ഈ പദം ഇവിടെ ആകുന്നു വിദ്യാർത്ഥി സമയം 0344 കാണുക ആ മൂന്നും ഓർത്തോഗണൽ ആകാം അല്ലെങ്കിൽ ആവാതിരിക്കാം ഞാൻ ഉദ്ദേശിക്കുന്നത് അവ ഓർത്തോഗണൽ ആയിരിക്കണം വിദ്യാർത്ഥി ഓർത്തോഗണൽ അതെ കാരണം ഓർത്തോഗണലാണ് അതിനാൽ അതുപോലുള്ള കുറച്ചു വെക്ടറുകളെ x ഹാറ്റ് ക്രോസ് ചെയ്താൽ അവ മൂന്നും പോലെ എനിക്ക് മറ്റൊരു കൂട്ടം ഓർത്തോഗണൽ വെക്റ്ററുകൾ ലഭിക്കും ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ ഘടകം നോക്കുന്നു അതിനാൽ 3 ആം ഘടകം ഇവിടെ എഴുതുന്നു അതാണ് ഞാൻ ഇവിടെ എഴുതിയത് ഇത് മൂന്നാമത്തെ ഘടകമാണ് ഇത് ഇരുവശത്തുമുണ്ട് അതിനാൽ ഇപ്പോൾ അവ രണ്ടും ഒരേ പേജിൽ ഉണ്ട് അതിനാൽ ഇത് നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങൾക്കുള്ളതാണ് ഇത് PML നുള്ളതാണ് ഇവയെ രണ്ടിനെയും താരതമ്യം ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് എന്താണ് വിദ്യാർത്ഥി s z മാത്രമാണ് നമ്മൾ ഉറപ്പിക്കേണ്ട ആകെയുള്ള പദം മാധ്യമം 1 ന്റെ സംഗ്രഹത്തിലേക്ക് നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ നമ്മുടെ PML ചെയ്യുമ്പോൾ അവിടെ എല്ലാ ഘടകങ്ങളും ആയിരുന്നു PML z ഭാഗങ്ങൾ ഒഴികെ എല്ലാം ഒന്നായിരുന്നു ഇവിടെ ഞാൻ അവയെ എന്നും എന്നും വിളിക്കുന്നു അവ രണ്ടും തുല്യമായിരുന്നു അവിടെ ഒരു ആയിരിക്കണം എന്ന് പറഞ്ഞ് ചർച്ച അവസാനിച്ചു അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായിരിക്കേണ്ട ഇത് സങ്കീർണ്ണമായിരിക്കണം എന്നാൽ ആ മൂല്യം എന്തായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അതിനാൽ നടപ്പിലാക്കുമ്പോൾ ആ ന്റെ മൂല്യം എന്താണെന്ന് നമ്മൾ പറയണം അതിനാൽ നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങളുമായുള്ള താരതമ്യം നോക്കിയാൽ ന്റെ വ്യാഖ്യാനം ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തിൽ നിന്ന് എടുക്കാനാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതിനാൽ എനിക്ക് ഈ എപ്സിലോൺ r സിഗ്മ എന്നിവ സജ്ജീകരിച്ച ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമം ഉണ്ടെങ്കിൽ എനിക്ക് ന്റെ മൂല്യം ലഭിക്കും അതിനാൽ ഞാൻ എഴുതുന്നത് അതായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് ഓർക്കുക ഒരു PML മാധ്യമത്തിനായി എനിക്ക് വേണ്ടത് ഒരു നഷ്ടം സംഭവിക്കുന്ന വസ്തുവായിരുന്നു വേണ്ടത് അതിനാൽ തരംഗം അകത്ത് ക്ഷയിക്കുന്നു അതാണ് നമ്മൾ ഇവിടെ കണ്ടത് എന്ന സമയ കൺവെൻഷനായി എനിക്ക് ആണ് വേണ്ടത് അതിനാൽ അതാണ് ഞാൻ പോലെ ഇവിടെ ക്രമീകരിക്കേണ്ടത് പക്ഷേ ഉം ഉം ആണ് നമ്മുടെ കൈയിലുള്ള ഘടകങ്ങൾ അവ എത്രയാണെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് അതിനാൽ ഇത് അങ്ങനെയാണ് നടപ്പാക്കലിന്റെ കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചത് കാരണം FDTD യിൽ നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്ന് നമുക്ക് ഇതിനകം അറിയാവുന്നതാണ് നമ്മൾ പിന്നീട് അത് ചർച്ച ചെയ്യും മാറ്റിയെഴുതിയ സമവാക്യം വ്യക്തമല്ലെങ്കിൽ ഞാൻ വീണ്ടും എഴുതാം പക്ഷേ നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങൾ എങ്ങനെ നടപ്പാക്കാമെന്ന് നമുക്ക് ഇതിനകം അറിയാം അതിനാൽ PML നടപ്പിലാക്കാൻ നമുക്ക് അറിയാം വിദ്യാർത്ഥി സമയം 0626 കാണുക അതെ ഇത് PML മനസ്സിലാക്കാനുള്ള കോർഡിനേറ്റ് സ്ട്രെച്ചിംഗ് രീതിയാണെന്ന് ഓർക്കുക അതിനാൽ നമ്മൾ PML നെ മനസ്സിലാക്കി അങ്ങനെ PML ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തിന് തുല്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി എന്നാൽ ഇത് മാത്രമാണെന്നത് ഓർക്കുക അത് അനിസോട്രോപിക് ആണ് അത് അതേ നഷ്ടം അനുഭവിക്കാൻ പോകുന്നില്ല ഉദാഹരണത്തിന് ൻറെയും യുടെയും മൂല്യങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ അത് തീർത്തും നഷ്ടം സംഭവിക്കുന്ന ഒരു മാധ്യമം അല്ല അതിനാൽ അത് അങ്ങനെയാണ് അതാണ് വ്യത്യാസം അത് ഇവിടെ എന്നെഴുതട്ടെ ഇവയെല്ലാം ഒരുപോലെയാണെങ്കിൽ ഞാൻ ചെയ്തത് ശരിയാണ് ഞാൻ ഇവിടെ എഴുതിയത് ഘടകത്തിന് മാത്രമാണെന്ന് ഓർക്കുക എന്ന പദം നോക്കുമ്പോൾ എനിക്ക് അവിടെ എന്ത് ലഭിക്കും വിദ്യാർത്ഥി s x അവിടെ ഉണ്ടാകും അതിൽ ഒന്ന് ഏതാണ് അതിനാൽ ആ വ്യാഖ്യാനം നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തിൻറെതല്ല അതിനാൽ ഇത് എങ്ങനെയാണ് നടപ്പാക്കേണ്ടതെന്ന് നമുക്ക് ഇതിനകം തന്നെ അറിയാം അതിനാൽ ഞാൻ അത് ഇവിടെ വീണ്ടും എഴുതുന്നു ഉദാഹരണത്തിന് നമ്മുടെ ൻറെ അപ്ഡേറ്റ് സമവാക്യങ്ങൾ ഇതായിരുന്നു ഞാൻ എഴുതുന്നത് എന്നും എന്നാൽ എന്നുമാണ് അത് കൃത്യം അല്ലെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞ സമയ സൂചികകൾ എന്തൊക്കെയാണ് വൈദ്യുത മണ്ഡലം ഓരോ പൂർണ്ണസംഖ്യാ സമയ സൂചികയും കാന്തികക്ഷേത്രം ഓരോ പകുതി പൂർണ്ണസംഖ്യയും ആണെന്ന് അതിനാൽ ഇത് ആണ് ഇതും ആണ് ഇതും ആണ് പ്രശ്നം തീർച്ചയായും ഇവിടെയുള്ള ഈ പദത്തിൽ ആണ് പകുതി സമയ പൂർണ്ണസംഖ്യകളിൽ ഞാൻ വൈദ്യുത മണ്ഡലം സംഭരിക്കുന്നില്ല അതിനാൽ നടപ്പാക്കുമ്പോൾ ഇത് ആയി മാറി രണ്ടാമത്തെ പദം ഞാൻ പകുതി പൂർണ്ണസംഖ്യയിൽ വൈദ്യുത മണ്ഡലം സംഭരിക്കാത്തതിനാൽ ഇത് ശരാശരിയായി മാറിയോ വിദ്യാർത്ഥി ശരാശരി അതിനാൽ ഇത് ആയി മാറി അതിനാൽ ഇതിനകം തന്നെ ഈ സമവാക്യം എങ്ങനെ ശരിയായി നടപ്പാക്കണമെന്ന് നമുക്കറിയാം അതിനാൽ ഞാൻ ഘടകപരമായി വേർതിരിക്കുമ്പോൾ ഏത് ഭാഗമാണ് ഏത് ഭാഗമാണ് ഏത് ഭാഗമാണ് എന്ന് നിങ്ങൾക്കറിയാം ഇത് എങ്ങനെ നടപ്പാക്കണമെന്ന് എനിക്കറിയാം

അതിനാൽ ഞാൻ വളരെ വിശദമായി ആ സമവാക്യങ്ങൾ എഴുതാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഈ തത്വങ്ങൾ അറിയാം എനിക്ക് ഈ ഘടകങ്ങൾ സജ്ജമാക്കി എനിക്ക് എന്റെ PML ലഭിക്കാം ഒരു അന്തിമ തരത്തിലുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമാണ് വിദ്യാർത്ഥി സർ വിദ്യാർത്ഥി PML എവിടെയാണ് അതെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് പറയാതിരുന്നത് അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയുണ്ട് ഇത് ആണ് ശരിയല്ലേ അതിനാൽ ഇതാ നിങ്ങളുടെ ഇതാ നിങ്ങളുടെ അപ്പോൾ അതാണ് നിങ്ങളുടെ അതിനാൽ നിങ്ങളുടെ s ഘടകങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയും വിദ്യാർത്ഥി അത് സ്വയം ഇത് സ്വയം ചെയ്യുന്നു അതെ നിങ്ങൾ നടപ്പിലാക്കേണ്ടത് ശരിയായ ഘടകങ്ങൾ നൽകുക അല്ലാതെ എല്ലാ x y z എന്നിവയ്ക്കും ഇത് ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകും എന്നാൽ ഞാൻ ഇവിടെ കൃത്യമായി പറഞ്ഞപ്പോൾ ഓർക്കുക അതിനാൽ നമുക്ക് ഈ സമവാക്യത്തിലേക്ക് മടങ്ങാം ഇപ്പോൾ ഞാൻ ഒരു തരംഗത്തെ ദിശയിൽ ക്ഷയിക്കാൻ താൽപ്പര്യപ്പെടുന്നതെങ്കിൽ ഇതാണ് ദിശ ഇവിടെ 1 ൽ നിന്ന് വ്യത്യസ്തമായിരിക്കാൻ തരത്തിലുള്ള ഒരു ഞാൻ തിരഞ്ഞെടുക്കുന്നു അതിനാൽ ദിശയിലേക്ക് പോകുന്ന ഒരു പാളി നിരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നത് ഏതൊരു എന്നതിനു തുല്യമായി ഞാൻ തിരഞ്ഞെടുക്കും അവയാണ് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്ത ഘടകങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരു യഥാർത്ഥ 2D കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ നോക്കാം ഞാൻ PML ൻറെ കനം കുറച്ച് അധികമായി കാണിക്കുന്നു അതിനാൽ ഇത് മുഴുവൻ PML ആണ് ഇത് എന്റെ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നാണ് ഞാൻ മനപ്പൂർവ്വം അത് വളരെ വലുതായി കാണിക്കുന്നു നമുക്ക് x y പോലെ ഒരു കോർഡിനേറ്റ് അക്ഷം ഉണ്ടാക്കാം അതിനാൽ ഇതിൽ പ്രായോഗികമായി എന്താണ് സംഭവിക്കുന്നത് അവയെ വേർതിരിക്കുമ്പോൾ PML ന്റെ ഇത്തരം വ്യത്യസ്തമായ നിരവധി മേഖലകളുണ്ടാകും അവയെ വേർതിരിക്കുന്നത് എന്താണ് ഉദാഹരണത്തിന് ഇവിടെ ഈ ഭാഗം തരംഗത്തെ നിരീക്ഷിക്കേണ്ടത് ഏത് ദിശയിലായിരിക്കണം അപ്പോൾ ഇപ്പോൾ ഇവിടെ 0 അല്ലാത്തത് എന്താണ് വിദ്യാർത്ഥി s x അല്ലേ അതിനാൽ ഈ ഭാഗത്തിന്റെ ഘടകങ്ങൾ ആയിരിക്കും ഈ ഭാഗം ഇവിടെ എന്താണ് ഇടത് ഭാഗം വീണ്ടും അതേ ദിശയിൽ ഇവിടെ ഇത് എന്താണ് അത് മൂലകളിൽ ഉപേക്ഷിക്കുന്നു അപ്പോൾ മൂലയിൽ എന്തായിരിക്കണം വിദ്യാർത്ഥി s x s y അല്ലേ അതിനാൽ മൂലകൾ അല്പം വ്യത്യസ്തമാണ് കാരണം എനിക്ക് അത് ആഗിരണം ചെയ്യണം ഇത് ഏകപക്ഷീയമായ ദിശയിൽ ആഗിരണം ചെയ്യേണ്ട ഒരു തരംഗമാണ് വിദ്യാർത്ഥി മൂലയിൽ മൂലകളിൽ എനിക്കൊരു 3D വസ്തു ഉണ്ട് അതിനാൽ എന്നാൽ മൂലകളിൽ എനിക്ക് ഉണ്ടാകുന്നു വിദ്യാർത്ഥി സർ മൂലകളിൽ ഉറപ്പായും നഷ്ടം സംഭവിക്കുന്ന ഒരു മാധ്യമം ഉണ്ടായിരിക്കുമോ ഉണ്ടായിരിക്കും പക്ഷേ നഷ്ടം അതെ അത് ഉറപ്പായും ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തെ പോലെയായിരിക്കും ഉദാഹരണത്തിന് ഇടയിലുള്ളവ കൃത്യമായും നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങൾ ആയിരിക്കുകയില്ല അവ അനീസോട്രോപിക് ആയിരിക്കും ഉദാഹരണത്തിന് ഇവിടെ വിദ്യാർത്ഥി PML ലംബ പതനത്തിന് വേണ്ടിയാണെന്ന് നമുക്ക് പറയാമോ ഈ PML ലംബ പതനത്തിന് വേണ്ടിയുള്ളതല്ല ഇത് അതിലേക്ക് പതിക്കുന്ന ഏതൊരു തരംഗത്തെയും ആഗിരണം ചെയ്യുന്നതാണ് വിദ്യാർത്ഥി ഇവിടെ നമ്മൾ ബീറ്റ തരംഗത്തെ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് അതിനാൽ എല്ലാ കോണുകളിലും ഈ ഇന്റർഫേസിൽ പതിക്കുന്നത് ഇത് ആഗിരണം ചെയ്യുമെന്നതാണ് ഈ വ്യാഖ്യാനം എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് PML ന്റെ അക്ഷം നിർവചിച്ചിരിക്കുന്നത് z ൽ ആണ് അതിനാൽ തരംഗം ഏത് കോണിലും വരാം അതിനാൽ ഇതിന് ഘടകം ആണ് പക്ഷേ ഇത് z ഇന്റർഫേസിൽ പതിക്കുന്ന ഏതൊരു കോണിലേയും തരംഗത്തെ ആഗിരണം ചെയ്തു ഇത് z ലൂടെ സഞ്ചരിക്കേണ്ടതില്ല പക്ഷേ ആഗിരണം എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനിവിടെ സജ്ജമാക്കേണ്ടത് z ഘടകം മാത്രമാണ് എന്നാൽ ഇത് ഏത് ദിശയിലുള്ള പതനത്തെയും ആഗിരണം ചെയ്യുന്നു വിദ്യാർത്ഥി പക്ഷേ തരംഗം അതിലാണ് സഞ്ചരിക്കുന്നത് തരംഗം ഏതൊരു ദിശയിലേക്കും സഞ്ചരിക്കാം എന്നല്ല തരംഗം അതിൽ ഏത് ദിശയിലൂടെ വന്നു പതിച്ചാലും അത് സഞ്ചരിക്കുന്നു അതാണ് നമുക്ക് ഉണ്ടായിരുന്ന ഈ പ്രതിഫലന ഗുണകം കാണിച്ചത് തരംഗം ഏത് കോണിലാണ് വന്നത് എന്നതിനെ ആശ്രയിക്കാതെ ഈ ഇവിടെയുള്ളതും ഇവിടെയുള്ളതും കൂടാതെ ഇതും 0 ആയിരുന്നു എനിക്ക് ഇവിടെ ക്രമീകരിക്കേണ്ട ഒരേയൊരു ഘടകം z ഘടകം മാത്രമാണ് തരംഗം z ദിശയിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്ന് ഇത് അർത്ഥമാക്കുന്നില്ല ഏത് കോണിലും തരംഗം പതിക്കുന്നതാണ് എന്നാൽ എനിക്ക് സജ്ജമാക്കേണ്ട ഘടകം z ഘടകമാണ് തരംഗം z ദിശയിലൂടെ മാത്രം സഞ്ചരിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിക്കരുത് ഇതിലൂടെ ആഗിരണം സംഭവിക്കാൻ പോകുന്നു ഇത് z ദിശയിലുടനീളം ഉണ്ടാകുന്ന എക്സ്പോണൻഷ്യൽ ക്ഷയമാണ് അതിനാൽ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാം എനിക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ഉണ്ടെന്ന് പറയട്ടെ ഇതെൻറെ z അക്ഷം ആണെന്ന് പറയട്ടെ തരംഗം ഇപ്പോൾ ഏതെങ്കിലും ഒരു കോണിൽ വരാം ഈ ഫോർമുലേഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്നത് എന്നാണ് വിദ്യാർത്ഥി ഇത് 1 1 പിന്നെ ഇതുപോലെ തുടരുമോ ഞാൻ പറഞ്ഞിരുന്നു ഇത് ആണെന്ന് ഇത് ആയത് എന്തിലാണ് അത് മറ്റൊരു ഇൻറർഫേസിൽ അതിനാൽ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഇന്റർഫേസ് നമുക്ക് ഇവിടെ എടുക്കാം അതിനാൽ എനിക്ക് എന്നൊരു ഇന്റർഫേസ് ഉണ്ട് ഇന്റർഫേസിന് എന്നീ കോർഡിനേറ്റുകളുണ്ട് ൽ എനിക്ക് ഉണ്ടായിരുന്നു ൽ എനിക്ക് ഉണ്ടായിരുന്നു അതിനാൽ വ്യത്യസ്തമാക്കുന്നത് എന്താണ് അതിനാൽ നമ്മൾ ഇത് കണ്ടെത്തിയ രീതി നോക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെയുള്ള പ്രതിഫലന ഗുണകം നോക്കുമ്പോൾ അതിരുകൾ എന്നതിൽ ആണെന്ന് കരുതുമ്പോൾ എനിക്ക് ലഭിക്കും അതിനാലാണ് എനിക്ക് സജ്ജമാക്കേണ്ടത് പക്ഷേ ഇതുപോലുള്ള ഒരു ഇന്റർഫേസിൽ വരുമ്പോൾ എനിക്ക് ലഭിക്കില്ല ഇവിടെ എനിക്ക് ലഭിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ സജ്ജമാക്കേണ്ടത് അപ്പോൾ അതിൽ വരുന്ന ഏത് തരംഗങ്ങളെയും ആഗിരണം ചെയ്യാൻ അതിന് കഴിയും അത് പ്രതിഫലന ഗുണകം 0 ആക്കുന്നു പക്ഷേ തരംഗം ഏത് കോണിൽ സഞ്ചരിക്കുന്നു എന്നത് പ്രശ്നമല്ല ഈ കോണിലുള്ള പ്രദേശത്ത് നടക്കുന്ന രസകരമായ കാര്യമാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഇവിടെ മൂലയിലുള്ള പ്രദേശത്തിന് എവിടെ നിന്ന് തരംഗം ലഭിക്കും PML ലേക്ക് പ്രവേശിച്ച തരംഗം ഇതുവരെ പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ചില കോണുകളിൽ സഞ്ചരിക്കുന്നു അതിനാൽ ഉദാഹരണത്തിന് ഇതുപോലുള്ള എന്തെങ്കിലും പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടുന്നില്ല തുടർന്ന് അത് ഇവിടെ പ്രവേശിക്കുന്നു അതിനാൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് എടുക്കാം വിദ്യാർത്ഥി സമയം 1610 കാണുക ഇത് സമതലത്തിൽ ആണ് k വെക്റ്റർ തലത്തിലാണ് 2 തവണ ക്ഷയിച്ചതിലും k വെക്റ്റർ സമതലത്തിലാണ് വൈദ്യുത മണ്ഡലത്തിലെ ധ്രുവീകരണം എവിടെയും ആകാം പക്ഷേ k എന്നത് സമതലത്തിലാണ് അതാണ് ഇതിനെ 2D ആക്കുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് വിവരശേഖരണം കുറച്ചുകൂടി ബുദ്ധിമുട്ടാകുന്നത് കാരണം നിങ്ങൾ x y z വെവ്വേറെ പിന്തുടരേണ്ടതുണ്ട് കൂടാതെ ഇവിടെ ഓരോ കാര്യത്തിനും എന്നീ ഘടകങ്ങൾ പ്രത്യേകം പരിഗണിക്കണം ഉദാഹരണത്തിന് ഞാൻ പറയാൻ പോകുന്ന അവസാന കാര്യം എന്തെന്നാൽ ഇത് ഇവിടെ L ആണെങ്കിൽ ഈ S ഘടകം നടപ്പിലാക്കുന്നതിനുള്ള ഒരു സാധാരണ മാർഗം എന്തെന്നാൽ ഇപ്പോൾ ഇത് ക്ഷമിക്കണം ഇതുപോലെയാണ് എന്നാൽ നിങ്ങൾക്ക് സാധാരണയായി വേണ്ടത് പ്രായോഗികമായി ചെയ്യുക എന്നതാണ് അതിനാൽ എന്നത് 1 നു തുല്യം ആക്കണം കാരണം അത് ശൂന്യതക്ക് സമീപത്താണ് എപ്സിലോൺ രണ്ട് വശങ്ങളിലും ഒരേ പോലെ ആയതിനാൽ ഇത് 1 ആക്കാം അതിനാൽ സാധാരണയായി നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്തെന്നാൽ സിഗ്മയെ x ൻറെ ഫംഗ്ഷൻ ആക്കി എഴുതാം കൂടാതെ x by L പോലുള്ള ചിലതിനെ m ൻറെ വർഗ്ഗം ആക്കി എഴുതുകയോ മറ്റോ ചെയ്യാം ഇത് ആകുന്നു അതിനാൽ നഷ്ടം വർദ്ധിക്കുന്നു ഇത് പെട്ടെന്ന് നഷ്ടമാകില്ല ഇത് x ന്റെ പോളിനോമിയൽ വർഗ്ഗം പോലെ വർദ്ധിക്കുന്നു ഇതാണ് നമ്മുടെ നടപ്പാക്കുന്നതിലുള്ള പ്രശ്നം ഇതാണ് മികച്ച പ്രകടനം നൽകുന്നത് സൈദ്ധാന്തികമായി നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്നാൽ നിങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇതാണ് മികച്ച പ്രകടനം നൽകുന്നത് വിദ്യാർത്ഥി അവിടെ നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടോ നടപ്പാക്കലിന്റെ കാര്യത്തിൽ ചില നഷ്ടം സംഭവിക്കുന്ന മാധ്യമങ്ങൾ അതെ ഒരുതരം നഷ്ടമാണ് s z വിദ്യാർത്ഥി അതെയോ അതാണ് അത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഉള്ളിലുള്ള ഘടകങ്ങൾ ലഭിക്കാൻ എന്റെ മാക്സ്വെല്ലിന്റെ അപ്ഡേറ്റ് സമവാക്യങ്ങൾ ഞാൻ വീണ്ടും എഴുതണം തുടർന്ന് ശരിയായ മൂല്യം സജ്ജീകരിക്കുക ഇത് FEM ൽ ചെയ്യാവുന്നതാണ് ചെയ്തതുമാണ് അതിനാൽ അത് PML ലെ ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു